രണ്ടാം പ്രഭാഷണത്തിലേക്ക് സ്വാഗതം ടൂളിന്റെ ആദ്യത്തേക്കുള്ള ആമുഖം യഥാർത്ഥത്തിൽ ഈ കോഴ്സിൽ മൈക്രോവേവ് രൂപകൽപ്പനയ്ക്കോ RF രൂപകൽപ്പനയ്ക്കോ വളരെയധികം ഉപയോഗിക്കുന്ന 3 ഉപകരണങ്ങൾ നമ്മൾ ഇപ്പോൾ കാണാൻ പോകുന്നു അവ ഇവയെല്ലാമാണ് സ്മിത്ത് ചാർട്ട് സ്കാറ്ററിംഗ് പാരാമീറ്റർ സിഗ്നൽ ഫ്ലോ ഗ്രാഫ് ഈ രണ്ടാം പ്രഭാഷണത്തിന്റെ വിഷയം ആദ്യ ടൂൾ ആയ സ്മിത്ത് ചാർട്ട് ആണ് സ്മിത്ത് ചാർട്ട് കണ്ടുപിടിച്ചത് ഫിലിപ്പ് സ്മിത്താണ് ഒരു മിടുക്കനായ എഞ്ചിനീയർ ബെൽ ലബോറട്ടറിയിൽ ജോലി ചെയ്യുകയായിരുന്നു കഴിഞ്ഞ നൂറ്റാണ്ടിൽ മാത്രമാണ് അദ്ദേഹം ആ സ്മിത്ത് ചാർട്ട് കണ്ടുപിടിച്ചത് നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ 1940 ൽ ആണ് ഇത് കണ്ടുപിടിച്ചതെന്ന് നിങ്ങൾ കാണുന്നു യഥാർത്ഥത്തിൽ ഇതൊരു ഗ്രാഫിക്കൽ ടൂളാണ് ഇത് ഒരു പ്രധാന സമവാക്യം പോലെ വളരെ ലളിതമായ ഒരു ടൂളാണ് ഇത് ഗ്രാഫിക്കായി പ്രദർശിപ്പിക്കുന്നു അതിനാൽ ഈ ടൂളിൽ നിരവധി അറേ പാരാമീറ്ററുകൾ ഗ്രാഫിക്കായി പ്രദർശിപ്പിക്കും കൂടാതെ നിങ്ങൾ ഒരു പാരാമീറ്റർ മാറ്റുകയാണെങ്കിൽ മറ്റ് പാരാമീറ്ററുകൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നത് ഇവിടെ വിവരിച്ചിരിക്കുന്നു കുറഞ്ഞത് രണ്ട് പാരാമീറ്ററുകളെങ്കിലും ഒരേസമയം പ്രദർശിപ്പിച്ചില്ലെങ്കിൽ ഒന്ന് മാറ്റുമ്പോൾ മറ്റൊന്ന് എങ്ങനെ മാറുന്നുവെന്ന് നിങ്ങൾക്ക് പ്രദർശിപ്പിക്കാൻ കഴിയില്ല അതിനാൽ സ്മിത്ത് ഈ പ്രശ്നം മനസ്സിലാക്കി ഞാൻ കഥയുടെ ഒരു ഭാഗമോ ഒരു സർക്യൂട്ടിന്റെ ഒരു ഭാഗമോ മാറ്റുകയാണെങ്കിൽ മറ്റേ ഭാഗം എങ്ങനെയാണെന്നോ മറ്റ് പാരാമീറ്ററുകൾ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്നോ മനസിലാക്കാൻ എനിക്ക് ഒരു ഗ്രാഫിക്കൽ ഉപകരണം ആവശ്യമാണ് അതുകൊണ്ടാണ് അദ്ദേഹം അത് കണ്ടുപിടിച്ചത് എന്നാൽ നിങ്ങൾ നോക്കുമ്പോൾ ചില സർക്കിളുകൾ കാണുന്നു ഇത് അൽപ്പം സങ്കീർണ്ണമാണെന്ന് തോന്നിയേക്കാം അതിനാൽ അടിസ്ഥാനപരമായി ഈ പ്രഭാഷണത്തിൽ നമ്മൾ ആ സങ്കീർണതകൾ അനാവരണം ചെയ്യാൻ ശ്രമിക്കും ഈ സ്മിത്ത് ചാർട്ടിൽ ഇടുകയോ പ്രദർശിപ്പിക്കുകയോ ചെയ്യുന്ന ആദ്യത്തെ പാരാമീറ്റർ ഇംപെഡൻസ് ആണെന്ന് നിങ്ങൾ കാണുന്നു എന്റെ ആദ്യ പ്രഭാഷണത്തിൽ ഒരു RF ഡിസൈനർക്കുള്ള ഇംപെഡൻസിന്റെ ആവശ്യകത ഞാൻ ഊന്നിപ്പറഞ്ഞിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാം അതിനാൽ എന്റെ നെറ്റ്വർക്കിന്റെ വിവിധ സ്ഥലങ്ങളിലെ ഇംപെഡൻസുകൾ എനിക്ക് കണക്കാക്കേണ്ടതുണ്ട് അതിനാൽ ഞാൻ എപ്പോഴും കാണാൻ ശ്രമിക്കുന്ന ഒന്നാണ് ഇംപെഡൻസ് നെറ്റ്വർക്കുകൾ സീരീസിലാണെങ്കിൽ ഞാൻ നെറ്റ്വർക്കുകളിലേക്ക് കണക്റ്റുചെയ്യുമ്പോൾ ആ സീരീസ് കണക്ഷന്റെ ആകെ അല്ലെങ്കിൽ തത്തുല്യമായ ഇംപെഡൻസ് എന്താണെന്ന് എനിക്ക് കണ്ടെത്തേണ്ടതുണ്ട് ചില സമയങ്ങളിൽ നമ്മൾക്ക് പാരലൽ കണക്ഷനുകൾ ഉണ്ടാകുമെന്നും ആ സമയം ഇംപെഡൻസുകൾക്ക് പകരം അവർ അഡ്മിറ്റൻസുകൾ ചേർക്കുന്നു എന്നും നിങ്ങൾക്കറിയാം അതിനാൽ അതേ സ്മിത്ത് ചാർട്ടിൽ അഡ്മിറ്റൻസും പ്രദർശിപ്പിക്കാൻ കഴിയും അപ്പോൾ നിങ്ങൾക്കറിയാം RF ഫ്രീക്വൻസിയിൽ അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ 50 ഹെർട്സ് രൂപത്തിൽ ആരംഭിക്കുന്ന ഏത് ഫ്രീക്വൻസിയിലും ഒരു വേവ് ഉണ്ട് കാരണം ടൈം വേരിയേഷൻനുള്ള ഏത് സോഴ്സും അതായത് ac സോഴ്സ് എല്ലായ്പ്പോഴും എനർജി റേഡിയേറ്റ് ചെയ്യുന്നു അത് സസ്റ്റൈൻഡ് ആവുകയോ ആവാതിരിക്കുകയോ ചെയാം അതുകൊണ്ടായിരിക്കാം നമുക്ക് എപ്പോഴും അതിൽ നിന്ന് റേഡിയേഷൻ ലഭിക്കാത്തത് പക്ഷേ അത് എന്തുതന്നെ അയച്ചാലും പവർ അയച്ചാലും അത് വേവ്ഫോമിൽ ആണ് അയക്കുന്നത് അതിനർത്ഥം സ്പേസ്ന് ഒപ്പം ഊർജ്ജം ക്രമേണ പോകുകയും പിന്നീട് എന്തെങ്കിലും ഡിസ്കണ്ടിന്യൂയിറ്റി കാണുകയാണെങ്കിൽ ഒന്നുകിൽ മെറ്റീരിയൽ ഡിസ്കണ്ടിന്യൂയിറ്റി അല്ലെങ്കിൽ ജോമേട്രിക് ഡിസ്കണ്ടിന്യൂയിറ്റി മുതലായവ അതായത് ഒരു ഇംപെഡൻസ് ഡിസ്കണ്ടിന്യൂയിറ്റി കാണുന്നുവെങ്കിൽ അപ്പോൾ വേവ് റിഫ്ലക്ട് ചെയ്യുന്നു അതിനാൽ അതേ സ്മിത്ത് ചാർട്ടിൽ പ്രദർശിപ്പിച്ചിരിക്കുന്ന റിഫ്ലക്ഷൻ കോയെഫിഷന്റ് എന്ന പരാമീറ്ററിനെ എത്ര വേവ് റിഫ്ലക്ട് ചെയ്തു എന്ന് കണ്ടെത്തേണ്ടതുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞ പരാമീറ്ററുകൾ അവ വളരെ പ്രധാനമാണ് അവയും ഈ സ്മിത്ത് ചാർട്ടിൽ പ്രദർശിപ്പിക്കാൻ കഴിയും തുടർന്ന് ഏതെങ്കിലും ആംപ്ലിഫയറിന്റെ ഗൈൻ മുതലായവയും അവിടെ ഡിസ്പ്ലേ ചെയ്യാൻ കഴിയുന്നു ഈ പോയിന്റിന്റെ പ്രാധാന്യം ഞാൻ വിശദീകരിച്ചു എത്ര നോയ്സ് ഉണ്ട് എന്നതിന്റെ പ്രാധാന്യം ഞാൻ വിശദീകരിച്ചിട്ടുണ്ട് നോയ്സ് ഫിഗർ ഒരു പാരാമീറ്റർ ആണ് അതും ഈ സ്മിത്ത് ചാർട്ടിൽ ഉൾപ്പെടുത്താം RF ആംപ്ലിഫയറുകൾക്ക് സ്റ്റബിലിറ്റി പ്രശ്നങ്ങളുണ്ട് ഒരു ആംപ്ലിഫയറിന് സ്റ്റബിലിറ്റി ഉണ്ടോ ഇല്ലേ എന്ന് നമുക്ക് ഇതിൽ പ്ലോട്ട് ചെയാം അതിനാൽ സ്മിത്ത് ചാർട്ടിൽ ഒരേസമയം പ്രദർശിപ്പിക്കാൻ കഴിയുന്ന പ്രാധാന്യമുള്ള വിവിധ RF പാരാമീറ്ററുകൾ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും ഇനി നമുക്ക് ഒരു സ്മിത്ത് ചാർട്ടിലേക്ക് വരാം അടിസ്ഥാനപരമായി ഗാമാ റീഫ്ലക്ഷൻ കോയെഫിഷ്യന്റ് തുല്യമായ ഈ പ്രസിദ്ധമായ സമവാക്യം നിങ്ങൾക്കറിയാം Γz−1z1 ഇതൊരു സമവാക്യമാണ് നിങ്ങൾ ട്രാൻസ്മിഷൻ ലൈനിനെ കുറിച്ചുള്ള കോഴ്സ് ചെയ്തതായി ഞാൻ കരുതുന്നു ഒരു ഫോർവേഡ് വേവ് ഉണ്ടാകുമ്പോൾ ഒരു ലോഡിൽ നിന്ന് റിഫ്ലക്ഷൻ ഉണ്ടാകുന്നു അതിനാൽ റിഫ്ലക്ഷൻ കോയെഫിഷ്യന്റ് ഇംപെഡൻസും എല്ലായ്പ്പോഴും ഈ ഫോർമുലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഈ സൂത്രവാക്യം നമ്മൾ പ്ലോട്ട് ചെയ്താൽ റീഫ്ലക്ഷൻ കോയെഫിഷ്യന്റ് അല്ലെങ്കിൽ ഇംപെഡൻസ് എന്നിവയിൽ ഒന്ന് വ്യത്യാസപ്പെട്ടാൽ അതായത് ഡിസ്പ്ലേ പാരാമീറ്ററുകളിലൊന്ന് വ്യത്യാസപ്പെട്ടിരിക്കുമ്പോൾ മറ്റൊന്ന് എങ്ങനെ വ്യത്യാസപ്പെടുന്നു എന്ന് നമുക്ക് ലഭിക്കുന്ന വിവിധ പോയിന്റുകളിൽ നിന്ന് മനസിലാക്കാം ഇനി അവ അതുമൂലം ഒത്ത് ചേർന്നാൽ അത് ലോക്കസ് എന്ന് വിളിക്കുന്നു അടിസ്ഥാനപരമായി സ്മിത്ത് ചാർട്ട് ഈ സമവാക്യത്തിന്റെ ഒരു ലോക്കസ് ആണ് ഇത് അടിസ്ഥാനപരമായി ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ് റിഫ്ളക്ഷൻ കോയെഫിഷ്യന്റ് ട്രാൻസ്ഫോർമേഷൻ എനിക്ക് ഒരു റിഫ്ളക്ഷൻ കോയെഫിഷ്യന്റ് വിവരണം ഉണ്ടെന്ന് കരുതുക ഈ സമവാക്യം അതേ വിവരണത്തെ ഇംപെഡൻസാക്കി മാറ്റുന്നു അതിനാൽ നമുക്ക് ആ സ്മിത്ത് ചാർട്ട് ഇംപെഡൻസും റിഫ്ലക്ഷൻ കോയെഫിഷ്യന്റ് തമ്മിലുള്ള ട്രാൻസ്ഫോർമേഷൻ ആണെന്ന് വിളിക്കാം ഇപ്പോൾ നിങ്ങൾക്ക് ഇൻട്രിൻസിക് ഇംപെഡൻസ് Z1 ഉള്ള മീഡിയം 1 ഉണ്ടെങ്കിൽ അത് മീഡിയം 2 ൽ വീഴുന്നു അപ്പോൾ മീഡിയം 1 നും 2 നും ഇടയിൽ അവ ചേരുന്നിടത്ത് ഒരു ഇന്റർഫേസ് ഉണ്ട് അതിനാൽ മീഡിയം 2 ന് മറ്റ് ചില ഇന്ററിന്സിക് ഇംപെഡൻസ് Z2 ഉണ്ട് അപ്പോൾ ഇന്റർഫേസിൽ നിന്ന് മീഡിയം 1 ലേക്ക് ഒരു റിഫ്ലക്ഷൻ ഉണ്ടാകും കൂടാതെ ഇന്റർഫേസിന്റെ റിഫ്ലക്ഷൻ കോഎഫീഷ്യന്റ് നൽകിയിരിക്കുന്നത് Γ Z2−Z1Z2 Z1 ആണ് ഇപ്പോൾ ഒരു ട്രാൻസ്മിഷൻ ലൈനിൽ ഒരു ലോഡ് ഉണ്ടെങ്കിൽ ട്രാൻസ്മിഷൻ ലൈനിന്റെ ഇംപെഡൻസ് Z0 ആണെന്ന് കരുതുക കൂടാതെ ട്രാൻസ്മിഷൻ ലൈൻ ലോഡിലേക്ക് പവർ കൊണ്ടുപോകുന്നുണ്ടെന്നും കരുതുക ഇത് മുമ്പത്തെ സ്ലൈഡിലെ അതെ കാര്യമാണ് ആയതിനാൽ എനിക്ക് ട്രാൻസ്മിഷൻ ലൈനിന് Z0 ക്യാരറ്റ്സ്റ്റിക്ക് ഇംപെഡൻസ് ഉണ്ട് അതിനാൽ ആ ഇംപെഡൻസ് ലെവലിൽ നിന്ന് പെട്ടെന്ന് ഞാൻ ഒരു പുതിയ ഇംപെഡൻസ് ലെവൽ ZL കാണുന്നു അവിടെ ഒരു റിഫ്ലക്ഷൻ ഉണ്ടാകും തുടർന്ന് റിഫ്ലക്ഷൻ കോയെഫിഷ്യന്റ് Γ ZL−Z0 ZL Z0 ആയിരിക്കും അതിനാൽ ഇവിടെ സമവാക്യം ശരിയായി എഴുതിയിരിക്കുന്നു ഡിനോമിനേറ്റർ പ്ലസ് ആണ് അതിനാൽ ഇതിനെ ഒരു ട്രാൻസ്മിഷൻ ലൈനിന്റെ ലോഡ് റിഫ്ലക്ഷൻ കോഎഫിഷ്യന്റ് എന്ന് വിളിക്കുന്നു ഇപ്പോൾ ചാർട്ട് ക്യാറക്ടർസ്റ്റിക് ഇംപെഡൻസിൽ നിന്ന് സ്വതന്ത്രമാക്കുന്നതിന് എനിക്ക് വിവിധ തരം ട്രാൻസ്മിഷൻ ലൈൻ ഉപയോഗിക്കാൻ കഴിയും ഒരാൾ ചിലപോൾ ക്യാറക്ടർസ്റ്റിക് ഇംപെഡൻസ് 50 ഓം ഉള്ളത് ഉപയോഗിക്കാം മറ്റൊരാൾ ചിലപ്പോൾ 75 ഓം ഉള്ളത് മുതലായവ ഉപയോഗിച്ചേക്കാം അതിനാൽ ചാർട്ട് പൊതുവായ ഒന്നായി മാറുന്നു ഈ മുഴുവൻ ചാർട്ടും പൂർണ്ണമായ ഉൾകൊള്ളുന്ന സമവാക്യമാണ് ഇത് വലതുവശത്ത് അതായത് സമവാക്യത്തിന്റെ ഇംപെഡൻസ് വശം ക്യാറക്ടർസ്റ്റിക് ഇംപെഡൻസ് കൊണ്ട് ഹരിക്കുന്നു അതിനാൽ അതിനെ z̄ ബാർ എന്ന് വിളിക്കുന്നു Γ ZLZ0 1ZLZ01z̄ 1z̄1 z̄ZLZ0 ഇത് നോർമലൈസ്ഡ് ഇംപഡൻസ് ആണ് ഇത് സ്മിത്ത് ചാർട്ടിന്റെ ഫണ്ടമെന്റൽ സമവാക്യം ഗാമ്മ z̄ 1z̄1 തുല്യമാണെന്നു നമ്മൾക്ക് ഇതിൽ നിന്ന് ലഭിക്കുന്നു ഇപ്പോൾ ഈ Γ റിഫ്ലക്ഷൻ കോയെഫിഷ്യന്റും z̄ നോർമലൈസ്ഡ് ഇംപെഡൻസും ആണ് ഇവ രണ്ടും കോംപ്ലക്സ് ക്വാണ്ടിറ്റീസ് ആണ് അതിനാൽ ഏത് കോംപ്ലക്സ് ക്വാണ്ടിറ്റീസ്ലും എനിക്ക് അത് a jβ റിയൽ ഭാഗവും ഇമാജിനറി ഭാഗവും ആയി എഴുതാം അതിനാൽ ഇവിടെ നമ്മൾ അത് എടുക്കുന്നു Γu jv അതായത് u v എന്നിവ റിയൽ സംഖ്യകളാണ് അവ ഇതുപോലെ uv സ്കെയിലിൽ പ്ലോട്ട് ചെയ്യാം എനിക്ക് ഈ കാണുന്ന u വശമുണ്ട് അത് റിയൽ വശം ആണ് ഈ വശം v അതിനാൽ ഇത് ഒരു ഗാമാ പ്ലെയിൻ ആണെന്ന് പറയാം സങ്കീർണ്ണമായ ഗാമാ പ്ലെയിൻ ഈ uv ഉപയോഗിച്ച് വിവരിക്കാം ഇതാണ് നിങ്ങളുടെ ഇമാജിനറി വശം ഇപ്പോൾ z പ്ലെയിനിൽ ഇതേ കാര്യം നോക്കിയാൽ ഈ വശം എന്റെ R⁻ഉം ഈ വശം എന്റെ x̄ ഉം ആയിരിക്കും ഏത് കോംപ്ലക്സ് ഇംപെഡൻസും R⁻ബാർ x̄ ബാർ എന്നിങ്ങനെ എഴുതാൻ കഴിയുമെന്ന് നിങ്ങൾക്കറിയാം അതിനാൽ ഇതാണ് നമ്മുടെ z̄ പ്ലെയിൻ Z R⁻ j x̄ അടിസ്ഥാനപരമായി സ്മിത്ത് ചാർട്ട് അവയിൽ നിന്നുള്ള ഒരു കൺവെർഷൻ ആണ് അതിനാൽ ആ സമവാക്യത്തിൽ ഇത് Γ Z−1Z 1 ആണ് നമുക്ക് ഈ വാല്യൂസ് ഇതിൽ നൽകാം അപ്പോൾ എല്ലാ റിയൽ വാല്യൂസ്ന്റെയും ടേമ്സിൽ ഗാമാ Γ ബാർ ലഭിക്കും നമ്മൾ അങ്ങനെ ചെയ്താൽ നമ്മൾക്ക് ലഭിക്കുന്ന സമവാക്യം Γu jv R−1 j x̄ R1 j x̄ ഇപ്പോൾ കോൺസ്റ്റന്റ് ആയ z̄ ന് ഗാമയുടെ സ്ഥാനം പ്ലോട്ട് ചെയ്യേണ്ടി വരും അതായത് കോൺസ്റ്റന്റായ z̄ ന്റെ ഗാമയുടെ ലോക്കസ് സ്മിത്ത് ചാർട്ട് ആണ് എന്നാൽ നമ്മൾ കണ്ടത് പോലെ ഗാമയും z̄ ഉം കോംപ്ലക്സ് നമ്പറാണ് അതിനാൽ സാധാരണയായി എപ്പോൾ നമ്മൾ കോംപ്ലക്സ് നമ്പേഴ്സ് കാണുമ്പോളും ഈ കോംപ്ലക്സ് നമ്പേഴ്സിനെ രണ്ട് ഓർത്തോഗണൽ റിയൽ നമ്പേഴ്സ് ആക്കി മാറ്റാൻ നമ്മൾ എപ്പോഴും ശ്രമിക്കാറുണ്ട് a jb അതിനാൽ നമ്മൾ പൊതുവെ റിയൽ കാര്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഇത് നിർമ്മിക്കാൻ ശ്രമിക്കുന്നു അതിനാൽ കോംപ്ലക്സ് z̄ അതായത് കോംപ്ലക്സ് ഇംപെഡൻസിനെ കോൺസ്റ്റന്റ് അതിന്റെ റിയൽ ഭാഗം ഇമാജിനറി ഭാഗം എന്നിങ്ങനെ വേർതിരിക്കുന്നു അതായത് R x̄ അല്ലെങ്കിൽ R x̄ ബാർ എന്നിവ കോൺസ്റ്റന്റ് ആണ് അതിനാൽ അത് നമ്മളെ രണ്ട് കർവ് ഫാമിലിയിലേക്ക് നയിക്കും ഒരേ സ്മിത്ത് ചാർട്ടിൽ രണ്ട് ഫാമിലി കർവുകൾ പ്ലോട്ട് ചെയ്തിരിക്കുന്നതിനാൽ അത് അൽപ്പം കോംപ്ലിക്കേറ്റഡ് ആയി തോന്നുന്നു എന്നാൽ നിങ്ങൾ ഇത് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ഇത് പരിഹരിക്കാൻ സാധിക്കും ലോക്കസിന്റെ രണ്ട് ഫാമിലിസ് ഒന്ന് കോൺസ്റ്റന്റായR⁻ന് ഒന്ന് കോൺസ്റ്റന്റായ x̄ ന് അതിനാൽ നമുക്ക് സമവാക്യം വീണ്ടും നോക്കാം z̄1 Γ1 Γ ഇപ്പോൾ നമ്മൾ ഇത് ഇൻവെർട്ട് ചെയ്യാൻ കാരണം z̄ കോൺസ്റ്റന്റ് ആയിരിക്കുമ്പോൾ സ്മിത്ത് ചാർട്ട് ഗാമ്മയുടെ പ്ലോട്ട് അല്ലെങ്കിൽ ലോക്കസ് ആയി മാറ്റുന്നു എന്നതുകൊണ്ടാണ് അതിനാൽ നമ്മൾ മുമ്പ് ഗാമയുടെ അടിസ്ഥാനത്തിൽ എഴുതിയ സമവാക്യം എഴുതുന്നു നമ്മൾ ഇപ്പോൾ അതിനെ z̄1 Γ1 Γ എന്ന് മാറ്റി എഴുതി അപ്പോൾ നിങ്ങൾ അത് റിയലും ഇമാജിനറിയുമായ ഭാഗങ്ങൾ ആക്കി മാറ്റി തുടർന്ന് നിങ്ങൾ റിയൽ ഭാഗവും ഇമാജിനറി ഭാഗവും തുല്യമാക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഈ രണ്ട് സമവാക്യങ്ങൾ ലഭിക്കും R1−u²−v²1−u2v2 അവിടെ വലതുവശത്ത് R⁻അല്ലെങ്കിൽ x̄ ഒന്നും അടങ്ങിയിട്ടില്ല അതുപോലെ X 2 v1−u²v² X ബാർ നമുക്ക് u v എന്നിവയുടെ ആകത്തുക ആയി എഴുതാം u v എന്നിവ രണ്ടും റിയൽ ക്വാണ്ടിറ്റിസ് ആണ് അതിനാൽ ഈ സമവാക്യത്തിൽ സങ്കീർണ്ണമായ ഒന്നും തന്നെയില്ല എല്ലാ ഇടതുവശത്തും വലതുവശത്തും അവ റിയൽ ക്വാണ്ടിറ്റിസ് ആണ് ഇതൊരു രണ്ടാം ഓർഡർ സമവാക്യമാണ് ആദ്യ ഓർഡർ സമവാക്യമല്ല അതിനാൽ R⁻ബാർ 1 ന് തുല്യമാണെങ്കിൽ ഈ സമവാക്യം എങ്ങനെയാവുമെന്ന് നോക്കാം ഞാൻ പറഞ്ഞതുപോലെ സ്മിത്ത് ചാർട്ട് കോൺസ്റ്റന്റായ ഇംപെൻഡൻസിനാണെന്ന് പറയുമ്പോൾ റിഫ്ലക്ഷൻ കോഎഫിഷ്യന്റ് എങ്ങനെയാണ് വ്യത്യാസപ്പെടുന്നത് കോൺസ്റ്റന്റായ ഇംപെഡൻസ് എന്നാൽ കോൺസ്റ്റന്റായ z̄ എന്നർത്ഥം കോൺസ്റ്റന്റായ R⁻ഉം കോൺസ്റ്റന്റായ x̄ ഉം ഇപ്പോൾ നമ്മൾ അതിനെ വേർതിരിച്ചിരിക്കുന്നു കാരണം അത് റിയലും ഇമാജിനറിയുമായ ഭാഗങ്ങൾ ആകുന്നത് വരെ നമുക്ക് അത് കൈകാര്യം ചെയ്യാൻ കഴിയില്ല അത് കൊണ്ടാണ് ഇവയെ രണ്ട് ഭാഗമാക്കുന്നത് ഇടതുവശത്തുള്ള ഡയഗ്രാമിൽ കോൺസ്റ്റന്റായ R⁻ എന്നാൽ അർത്ഥമാക്കുന്നത് എല്ലാ വേർട്ടിക്കൽ ലൈനും വിവിധ മൂല്യങ്ങളുള്ള R ⁻ ആയിരിക്കാം ഉദാഹരണത്തിന് R ⁻ബാർ എന്നത് 0 ആയിരിക്കാം R⁻ എന്നത് 0 5 ആയിരിക്കാം R⁻ എന്നത് 1 ആയിരിക്കാം R⁻ എന്നത് 3 ആയിരിക്കാം എന്നിങ്ങനെ അതിനർത്ഥം ഇത് ഒരു അനന്തമായ വേർട്ടിക്കൽ ലൈൻ ആണ് ഇപ്പോൾ അവയിൽ ഓരോന്നും നിങ്ങൾ കാണുന്നത് R⁻എന്ന കോൺസ്റ്റന്റായാണ് നമുക്ക് അതിനെ ഇങ്ങനെ എഴുതാൻ കഴിയുന്നു u2v22 −R u R−1 0 സർക്കിൾ ഫാമിലിയുടെ ഒരു സമവാക്യമാണിതെന്ന് നിങ്ങൾക്കറിയാം അതിനാൽ നിങ്ങൾക്ക് ഇതിന്റെ സഹായം എളുപ്പത്തിൽ കണ്ടെത്താനാകും ഇത് നിങ്ങളുടെ 12 ാം ക്ലാസ്സിലെ അറിവ് പുതുക്കുന്നതിന് വേണ്ടി മാത്രമുള്ളതാണ് എനിക്ക് g−f സെന്റർ ആയ R⁻ റേഡിയസ് ഉള്ള സർക്കിൾ ഉണ്ട് സർക്കിൾന്റെ സമവാക്യം ഇങ്ങനെ എഴുതാം x2 y22 gx2 fy c0 അപ്പോൾ എനിക്ക് −g−f സെന്ററും R⁻ എന്നത് റേഡിസും ആണ് അപ്പോൾ r√g2 f 2−c ഇതിൽ നിന്ന് നിങ്ങൾ ആ സമവാക്യം ചേർത്താൽ നിങ്ങൾക്ക് സർക്കിളുകളുടെ ഫാമിലി ലഭിക്കും അതിനാൽ സെന്റർ R⁻R⁻ 10 ആണ് അതായത് എല്ലാ സെന്ററുകളും ഗ്രാഫിന്റെ റിയൽ ആക്സിസിലും കൂടാതെ റേഡിയസ് 1R⁻ 1 ആയിരിക്കും അതിനാൽ τ പ്ലയിൻ കോൺസ്റ്റന്റായ R⁻ലോക്കസ് നിങ്ങൾ കാണുന്നു അതിനർത്ഥം സ്മിത്ത് ചാർട്ട് പ്ലെയിനിൽ അവയെല്ലാം സർക്കിളുകളാണെന്നാണ് അവിടെ എന്താണ് സംഭവിക്കുന്നത് വിവിധ സർക്കിളുകൾ ഉണ്ടെന്ന് നിങ്ങൾ കാണുന്നു എല്ലാ സർക്കിളുകളും വലതുഭാഗം 1 0 ലൂടെയാണ് കടന്നുപോകുന്നത് R⁻നെഗറ്റീവ് ആണെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് നിങ്ങൾ കാണുന്നുണ്ടോ നമ്മുടെ റേഡിയസിന്റെ എക്സ്പ്രഷൻ 1R 1 ആണ് അതിനാൽ R⁻നെഗറ്റീവ് ആണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് റേഡിയസ് 1 ൽ കൂടുതലായി മാറുന്നു ഇപ്പോൾ നമുക്ക് R⁻ നെഗറ്റീവ് ഉണ്ടാകുമോ ആക്റ്റീവ് ഡിവൈസുകൾക്ക് റെസിസ്റ്റൻസ് നെഗറ്റീവ് ആണ് അങ്ങനെയെങ്കിൽ R⁻ നെഗറ്റീവ് ലഭിച്ചു എന്നാതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് ഒരു ആക്റ്റീവ് ഡിവൈസ് ആണെന്നാണ് അത് പവർ ഡെസ്സിപേറ്റ് ചെയുന്നതിനു പകരം പവർ നൽകുന്നതിനാൽ പുറത്തേക്ക് വീഴുന്ന റേഡിയസ് 1 ൽ കൂടുതലാണ് ഇത് ഓസിലേറ്റർ ഡിസൈനുകളുടെ സ്റ്റബിലിറ്റി അനലിസിസ് മുതലായവയ്ക്ക് ഉപയോഗിക്കുന്നു അതിനാൽ കോൺസ്റ്റന്റായ റെസിസ്റ്റന്റ് സർക്കിളുകളുടെ ഫാമിലി നമ്മൾ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ കാണപ്പെടുന്നു ഈ സർക്കിളുകളെല്ലാം പോയിന്റ് 1 0 ലൂടെ കടന്നുപോകുന്നു വിവിധ സർക്കിളുകളുടെ എല്ലാ കേന്ദ്രങ്ങളും വസ്തുവിന്റെ റിയൽ അച്ചുതണ്ടിലാണ് കൂടാതെ ഒരു പ്രധാന പോയിന്റ് R⁻എന്നത് 0 ന് തുല്യമാണ് അത് മുഴുവൻ സ്മിത്ത് ചാർട്ടിന്റെ യും പുറം അതിർത്തിയാണ് ഈ സ്മിത്ത് ചാർട്ടിൽ സാധാരണയായി നമ്മൾ പാസ്സീവ് സർക്യൂട്ടുകളാണ് കൈകാര്യം ചെയ്യുന്നത് അതിനാൽ സ്മിത്ത് ചാർട്ട് നിങ്ങളുടെ സൈറ്റിലും ഉണ്ടാക്കും അതിനാൽ ഈ ചാർട്ട് ആണ് സ്മിത്ത് ചാർട്ട് എല്ലാ കോൺസ്റ്റന്റായ റെസിസ്റ്റന്റ് സർക്കിളുകളും അവ ഇതാണ്R⁻ന് യോജിക്കുന്ന ഈ ഔട്ടർ ബൌണ്ടറി 0 സർക്കിളിന് തുല്യമാണ് സെന്റർ 0 0 യും അതിന്റെ റേഡിയസ് 1 ഉം ആണെങ്കിൽ ഇത് 1 ആയി കണക്കാക്കപ്പെടുന്നു ഇത് മറ്റെന്തെങ്കിലും മില്ലിമീറ്റർ മുതലായവ ആയിരിക്കാം അതിനാൽ നിങ്ങൾക്ക് ഇത് അളക്കാൻ കഴിയും എന്നാൽ അത് സ്മിത്ത് ചാർട്ട് കണക്കുകൂട്ടലുകൾ 1 ആയി നോർമലൈസ് ചെയ്തിരിക്കുന്നതാണ് ഇപ്പോൾ നെഗറ്റീവ് റെസിസ്റ്റൻസ് ഞാൻ വിശദീകരിച്ചതുപോലെ സ്റ്റാൻഡേർഡ് ബൌണ്ടറിക്ക് പുറത്ത് പോകേണ്ടതുണ്ട് ഏതെങ്കിലും ഘട്ടത്തിൽ 1 ഈ അതിർത്തിക്ക് പുറത്താണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക സർക്കിളിൽ ഓസ്ല്ലേഷൻസ് ആരംഭിക്കുകയാണ് അതിനാൽ എന്തെങ്കിലും ചെയ്യുന്നതിലൂടെ നിങ്ങൾ ഈ ബാഹ്യ അതിർത്തിക്ക് പുറത്താണ് പോകുന്നതെന്ന് നിങ്ങൾ കണ്ടെത്തുകയാണെങ്കിൽ നിങ്ങളുടെ R⁻ നെഗറ്റീവ് ആയിത്തീരുന്നു അപ്പോൾ നിങ്ങളുടെ ഓസ്ല്ലേഷൻസ് ആരംഭിച്ചു അതിനാൽ അത് ഒരു പാസ്സീവ് സർക്കിൾ അല്ല ഇപ്പോൾ നമുക്ക് സർക്കിളുകളുടെ കോൺസ്റ്റന്റായ റിയാക്റ്റൻസ് സർക്കിൾ മറ്റൊരു ഫാമിലി നോക്കാം കാരണം Z ന് ഞാൻ പറഞ്ഞതുപോലെ ഇംപെഡൻസ് രണ്ട് ഭാഗങ്ങൾ ഉണ്ട് റെസിസ്റ്റൻസും റിയാക്റ്റൻസും റിയാക്റ്റൻസ് എന്നാൽ x̄ എന്നാണ് ഇംപെഡൻസ് പ്ലെയിനിലെ കോൺസ്റ്റന്റായ പ്രതിപ്രവർത്തനം എന്താണ് ഇവയെല്ലാം ഹോറിസോൺട്ടൽ ലൈൻസ് ആണ് അതിനാൽ കോൺസ്റ്റന്റ് x̄ ന് ആ സമവാക്യം ചെയ്താൽ വീണ്ടും വിവിധ വാല്യൂസിന്റെ ഇൻഫിനിറ്റ് ഹോറിസോൺട്ടൽ ലൈൻസ് കിട്ടുന്നു അതിനാൽ ഇത് വീണ്ടും ഒരു സർക്കിൾ സമവാക്യമാണെന്നും സെന്ററും റേഡിയസും നിങ്ങൾക്ക് എല്ലായ്പ്പോഴും പ്രവർത്തിക്കാൻ കഴിയുമെന്നും നിങ്ങൾ കാണുന്നു അതിനാൽ ഇത് ഇതേ ഫോർമുലയിൽ നിന്നുമുള്ള സെന്റർ ഇതാണ്റേഡിയസിൽ ഇതാണ് u²v²−2u−2 vX10 കേന്ദ്രം1 1X ആരം1X വീണ്ടും ഈ സർക്കിളുകൾ ഇവിടെ പ്ലോട്ട് ചെയ്തിരിക്കുന്നു സ്മിത്ത് ചാർട്ടിന്റെ പുറം അതിർത്തി ഈ ചുവപ്പ് നിറത്തിൽ അടയാളപ്പെടുത്തിയ ഒന്ന് മാത്രമാണ് നിങ്ങൾ ചിത്രം വീണ്ടും കാണുകയാണെങ്കിൽ ഈ സർക്കിളുകളെല്ലാം ആ സ്റ്റാൻഡേർഡ് സ്മിത്ത് ചാർട്ടിന് പുറത്ത് വീഴുന്നതായി കാണും അതിനാൽ അവരുടെ സെന്ററെല്ലാം സ്മിത്ത് ചാർട്ടിന് പുറത്താണ് എന്നാൽ ഒരു കാര്യം ഇപ്പോഴും ശരിയാണ് നിങ്ങൾ ഒന്നാമത്തെയും നാലാമത്തെയും ചതുരം കാണുകയാണെങ്കിൽ എ ൺസ്റ്റന്റ് റിയാക്റ്റൻസ് സർക്കിളുകളും അവ വീണ്ടും ഏറ്റവും വലത് പോയിന്റ് 1 0 ലൂടെ കടന്നുപോകുന്നു അതിനാൽ എല്ലാ കോൺസ്റ്റന്റായ റെസിസ്റ്റൻസ് സർക്കിളുകളും കോൺസ്റ്റന്റായ റിയാക്റ്റൻസ് സർക്കിളുകളും ഒരേ പോയിന്റിലൂടെ കടന്നുപോകുന്നു പക്ഷേ ഈ കോൺസ്റ്റന്റായ റിയാക്റ്റൻസ് സർക്കിളുകളിൽ നിന്ന് വ്യത്യസ്തമായി അവർ കൂടുതലും ഈ സ്റ്റാൻഡേർഡ് സ്മിത്ത് ചാർട്ടിന് പുറത്താണ് പോകുന്നത് അതിനാൽ ചുവന്ന വൃത്തം സ്റ്റാൻഡേർഡ് സ്മിത്ത് ചാർട്ടിന്റെ പുറം അതിർത്തിയാണ് ഇതിൽ നിന്ന് നമുക്ക് ഒരു സ്റ്റാൻഡേർഡ് സ്മിത്ത് ചാർട്ടിൽ ഈ R 0 ന് തുല്യമായാൽ അത് സ്മിത്ത് ചാർട്ടിന്റെ അതിർത്തിയാണെന്ന് പറയാം അതിനാൽ അവിടെ കോൺസ്റ്റന്റായ റിയാക്റ്റൻസ് ആർക്കുകൾ പോലെ രൂപപ്പെടും സ്റ്റാൻഡേർഡ് സ്മിത്ത് ചാർട്ടിൽ നിങ്ങൾ കോൺസ്റ്റന്റായ റിയാക്റ്റൻസ് സർക്കിളുകൾ പ്ലോട്ട് ചെയ്താൽ അവ സർക്കിളുകളുടെ ആർക്കുകളുടെ ഭാഗമാകും അതിനാൽ നമ്മൾ 1 0 9 മുതലായ വിവിധ മൂല്യങ്ങൾ കാണുന്നു അതിനാൽ കോൺസ്റ്റന്റായ റിയാക്റ്റൻസ് സർക്കിളുകൾ സ്റ്റാൻഡേർഡ് സ്മിത്ത് ചാർട്ടിലെ ആർക്കുകളാണ് ഇപ്പോൾ 0 സർക്കിളുകൾക്ക് തുല്യമായ x̄ എന്താണ് x̄ എന്നത് കോൺസ്റ്റന്റായ x̄ ന് തുല്യമാണ് അത് 0 ആയിരിക്കാം അതിനാൽ നിങ്ങൾ അങ്ങനെ ചെയ്താൽ അത് യഥാർത്ഥത്തിൽ ഒരു സ്ട്രൈറ്റ് ലൈൻ ഇൻഫിനിറ്റ് ലൈൻലേക്ക് ഡീജനറേറ്റ് ചെയുന്നത് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും x̄ നുള്ള ഒരു സർക്കിളിൽ വസ്തുവിന്റെ യഥാർത്ഥ അച്ചുതണ്ടിലേക്ക് ഡീജനറേറ്റ് ചെയ്യുന്ന 0 ന് തുല്യമാണ് അതിനാൽ അത് 0 ആണെന്ന് നമ്മൾ കണ്ടു x̄ പോസിറ്റീവ് ആയിരിക്കുമ്പോൾ സർക്കിൾ സെന്റർ പുറത്താണ് അതിനാൽ ആർക്ക് മുകളിലെ പകുതി ഭാഗമാണെന്ന് കാണിക്കുന്നു ആ മുകളിലെ പകുതി ഭാഗം ഇപ്പോഴും 10 ലൂടെ കടന്നുപോകുന്നു സ്റ്റാൻഡേർഡ് സ്മിത്ത് ചാർട്ടിന്റെ ഏറ്റവും വലത് പോയിന്റും ഈ സർക്കിളിന്റെ ഏറ്റവും താഴ്ന്ന പോയിന്റും 10 ആണ് അതിനാൽ നിങ്ങൾക്ക് പോസിറ്റീവ് നെഗറ്റീവ് റിയാക്റ്റൻസ് കാണാൻ കഴിയും ഇതിൽ നിന്ന് നമുക്ക് ഇൻഡക്റ്റീവ് റിയാക്ടൻസ് ലോക്കസ് മുകളിലെ പകുതി ആർക്കുകളാണെന്നും കപ്പാസിറ്റീവ് റിയാക്ടൻസ് ലോക്കസ് താഴത്തെ ഭാഗങ്ങളാണെന്നും നിങ്ങൾക്ക് വ്യക്തമായി കാണാൻ കഴിയും സ്മിത്ത് ചാർട്ട് ഈ R ബാർ x̄ ലോക്കസ് എന്നിവയുടെ സംയോജനമാണ് അതിനാൽ സ്മിത്ത് ചാർട്ട് എന്നത് രണ്ട് സർക്കിൾ ഫാമിലിയുടെ സംയോജനമാണ് ഒരു നിശ്ചിത R⁻ സർക്കിളിനും ഒരു നിശ്ചിത x̄ സർക്കിളിനും ഇടയിലുള്ള ഒരു പോയിന്റ് ആയി ഒരു സ്റ്റാൻഡേർഡ് സ്മിത്ത് ചാർട്ടിൽ ഏത് പാസ്സീവ് റെസിസ്റ്റൻസും പ്ലോട്ട് ചെയ്യാൻ കഴിയും സ്മിത്ത് ചാർട്ടിനുള്ളിൽ രണ്ട് സർക്കിളുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ചിലത് പൂർണ്ണ സർക്കിളുകളും ചിലത് ആർക്കുകളുമാണ് ഒരു ഫാമിലി പൂർണ്ണ സർക്കിൾ ആണ് മറ്റൊരു ഫാമിലി ആർക്ക് ആണ് അതിനാൽ ഒരു മീറ്റിംഗ് പോയിന്റ് എപ്പോഴും ഉണ്ടാകും അതാണ് ഇമ്പിഡൻസ് ഇനി എന്താണ് നേട്ടം മെച്ചം എന്തെന്നാൽ ഇംപെഡൻസ് വ്യത്യാസപ്പെടാം എന്നർത്ഥം R x̄ എന്നിവ മൈനസ് ഇൻഫിനിറ്റി മുതൽ പ്ലസ് ഇൻഫിനിറ്റി വരെ വ്യത്യാസപ്പെടാം അല്ലെങ്കിൽ പാസ്സീവ് ഉപകരണങ്ങൾക്ക് 0 മുതൽ ഇൻഫിനിറ്റി വരെ വ്യത്യാസപ്പെടാം എന്നാൽ ആ മുഴുവൻ സംഗതി സ്മിത്ത് ചാർട്ട് ഈ സർക്കിളിന്റെ ഈ ബാഹ്യ അതിർത്തിയായ ഒരു പരിമിത മേഖലയിലേക്ക് പ്ലോട്ട് ചെയ്യുന്നു അതിനാൽ എല്ലാ ഇംപെഡൻസുകളും ഇവിടെയുണ്ട് അതിനാൽ ഏത് പാസ്സീവ് ഇംപെഡൻസും ഇവിടെയുണ്ട് അതാണ് ഭംഗി ഏതെങ്കിലും ഇൻഫിനിറ്റി ഡൊമെയ്നിന് പകരം അത് ഒരു പരിമിത തലത്തിലേക്ക് പരിമിതപ്പെടുത്തിയിരിക്കുന്നു ഇപ്പോൾ ഞാൻ സ്മിത്ത് ചാർട്ട് 180 ഡിഗ്രി തിരിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും ഇതാണ് എന്റെ അടിസ്ഥാന സമവാക്യം ആദ്യ സമവാക്യത്തിന് തുല്യമാണ് ആദ്യ ഒന്ന് z̄ അതിനാൽ അതിന്റെ അഡ്മിറ്റാൻസ് എന്തായിരിക്കും z̄1Γ1 Γ Ȳ1z1 Γ1Γ ഇപ്പോൾ സ്മിത്ത് ചാർട്ടിൽ ഒരു പോയിന്റിന്റെ റേഡിയസ് വെക്റ്റർ 180 ഡിഗ്രി തിരിയുന്നു അതിനാൽ പുതിയ പോയിന്റിന്റെ റിഫ്ലക്ഷൻ കോയെഫിഷ്യന്റ് ഗാമയ്ക്ക് പകരം Γeʲπ ആയിരിക്കും നിങ്ങൾ ആദ്യം കാണുന്ന ആ സമവാക്യത്തിലേക്ക് അത് ഇടുക z̄1Γeʲπ1 Γʲπ1 Γ1ΓȲ അതിനാൽ ഈ സ്ലൈഡിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് എന്തെന്നാൽ സ്മിത്ത് ചാർട്ടിലെ ഇംപെഡൻസ് പോയിന്റ് 180 ഡിഗ്രി നിങ്ങൾ തിരിക്കുകയാണെങ്കിൽ ഇംപെഡൻസ് പോയിന്റ് എന്നത് ഒരു അഡ്മിറ്റൻസ് പോയിന്റിലേക്ക് മാറ്റപ്പെടും ഇത് നമ്മുടെ പിന്നീടുള്ള പ്രശ്ന പരിഹാരത്തിൽ വളരെ ഉപയോഗപ്രദമായ ഒരു സൂചനയായിരിക്കും ഇപ്പോൾ അഡ്മിറ്റൻസ് സ്മിത്ത് ചാർട്ടുകളും ലഭ്യമാണ് അവിടെ 180 ഡിഗ്രി ട്രാൻസ്ഫോം ചെയേണ്ടതിനു പകരം ആളുകൾ നിങ്ങൾക്കായി അത് ചെയ്തു അങ്ങനെ നിങ്ങൾക്ക് അഡ്മിറ്റൻസ് സ്മിത്ത് ചാർട്ട് ലഭിക്കും അതിനാൽ നമ്മൾ അഡ്മിറ്റൻസ് സ്മിത്ത് ചാർട്ടും സൈറ്റിൽ കയറ്റിയിടും ഇതിൽ എല്ലാ കാര്യങ്ങളും Ȳ ടേമ്സിലാണ് ഇവിടെ എല്ലാ പോയിന്റുകളും കോൺസ്റ്റന്റായ സസെപ്റ്റൻസിലൂടെ കടന്നുപോകുന്നു അതോടൊപ്പം കോൺസ്റ്റന്റായ കണ്ടക്ടൻസ് സർക്കിൾ മൈനസ് 10 ലൂടെ കടന്നുപോകുന്നതായും നമുക്ക് കാണാം കഴിഞ്ഞ തവണ ഇത് ഇംപെഡൻസ് സ്മിത്ത് ചാർട്ടിന്റെ വലത് വശമായിരുന്നു അഡ്മിറ്റൻസ് സ്മിത്ത് ചാർട്ടിന് ഇത് ഇടത് വശമാണ് ഇവിടെ മുകളിലെ പകുതി ആർക് നെഗറ്റീവ് സസെപ്റ്റൻസിനെ പ്രതിനിധീകരിക്കുന്നു താഴത്തെ പകുതി ആർക്കുകൾ പോസിറ്റീവ് സസെപ്റ്റൻസിനെ പ്രതിനിധീകരിക്കുന്നു അതിനാൽ നിങ്ങൾക്ക് അഡ്മിറ്റൻസ് സ്മിത്ത് ചാർട്ടും അഡ്മിറ്റൻസും ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട മാറ്റങ്ങൾ ഇവയാണ് അഡ്മിറ്റൻസ് സ്മിത്ത് ചാർട്ട് വഴിയോ ഇംപെഡൻസ് സ്മിത്ത് ചാർട്ട് വഴിയോ ചില പോയിന്റിൽ നിങ്ങൾക്കിത് കണ്ടെത്താനാകും ഇതിന്റെ ഒരു ഉദാഹരണം നമ്മൾ ഈ പ്രഭാഷണത്തിൽ കാണും വിവിധ സന്ദർഭങ്ങളിൽ ഒരു നെറ്റ്വർക്കിൽ നമുക്ക് ഇവയുടെയെല്ലാം കോമ്പിനേഷൻ ലഭിക്കും അതായത് വിവിധ RF കമ്പോണേന്റ്സ് ചില സീരീസ് കണക്ഷനുകൾ തുടർന്ന് ഒരു സമാന്തര സംയോജനം മുതലായവ ചിലപ്പോൾ നമുക്ക് ഇംപഡൻസ് ഉണ്ടായിരിക്കണം ചിലപ്പോൾ നമുക്ക് അഡ്മിറ്റൻസ് പ്ലെയിനിൽ തന്നെ തുടരേണ്ടി വരും ഇപ്പോൾ ഒരു ചാർട്ട് ലഭ്യമാണ് അതിനെ z y ചാർട്ട് അല്ലെങ്കിൽ ഇംപെഡൻസ് അഡ്മിറ്റൻസ് ചാർട്ട് എന്ന് വിളിക്കുന്നു ഇവിടെ ചുവന്ന സർക്കിളുകളും ആർക്കുകളും ഇംപെഡൻസിനു വേണ്ടിയും പച്ച ആർക്കുകളും സർക്കിളുകളും അഡ്മിറ്റൻസിനു വേണ്ടിയും ഉള്ളതാണ് ഇവിടെ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും ഏത് പോയിന്റിൽ നിന്നും പോകാം കാരണം ഏത് പോയിന്റിലും നിങ്ങൾക്ക് അത് ചുവപ്പിന്റെയോ പച്ചയുടെയോ അടിസ്ഥാനത്തിൽ വായിക്കാൻ കഴിയും അതിനാൽ നിങ്ങൾ കണ്ടെത്തിയ ഏത് പോയിന്റും y പ്ലെയിനിൽ പറയാം അതിനർത്ഥം നിങ്ങൾ പച്ച നിറത്തിൽ നൽകിയിരിക്കുന്ന മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ലൊക്കേറ്റ് ചെയ്തു തുടർന്ന് അവ ചുവപ്പിന്റെ അടിസ്ഥാനത്തിൽ വായിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നു അത് ഇംപെഡൻസ് ആയിരിക്കും അതിനെയാണ് നമ്മൾ ഇംപെഡൻസ് അഡ്മിറ്റൻസ് സ്മിത്ത് ചാർട്ട് എന്ന് വിളിക്കുന്നത് നമ്മൾ ഇതും അപ്ലോഡ് ചെയ്യുന്നതിനു സഹായകമാകും സ്മിത്ത് ചാർട്ടിന്റെ ഏറ്റവും പുറം ഭാഗത്ത് നിങ്ങൾ കാണിച്ചിരിക്കുന്നത് ലാംഡയുടെ ടേമ്സിൽ അത്രയും ദൂരവും നീങ്ങുകയാണെങ്കിൽ നിങ്ങൾ എവിടേക്കാണ് പോകുന്നതെന്നതാണ് അതുകൊണ്ട് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്നുകിൽ അവർ ജനറേറ്റർ എന്ന് വിളിക്കുന്ന ഒരു ഉറവിടത്തിലേക്ക് പോകാം കൂടാതെ നിങ്ങൾക്ക് ലോഡിലേക്ക് പോകാം നിങ്ങൾ ഒരു ട്രാൻസ്മിഷൻ ലൈനിലെ ഏത് പോയിന്റിൽ ആണെങ്കിലും നിങ്ങൾ ഉറവിടത്തിലേക്ക് പോകുകയാണെങ്കിൽ ഔട്ടർ ബൌണ്ടറിയിൽ നിങ്ങൾ എവിടേക്കാണ് പോകുന്നതെന്ന് നിങ്ങൾക്ക് കണ്ടെത്താനാകും അതിനാൽ ട്രാൻസ്മിഷൻ ലൈനിലൂടെ നിങ്ങൾ ജനറേറ്ററിലേക്ക് നീങ്ങുകയാണെങ്കിൽ നിങ്ങൾ എവിടെയാണ് എത്തി ചേരുന്നതെന്ന് നിങ്ങൾക്ക് കണ്ടെത്താനാകും അതുപോലെ നിങ്ങൾ ലോഡിലേക്ക് പോകുകയാണെങ്കിൽ നിങ്ങൾ എവിടെയാണ് എത്തി ചേരുന്നതെന്ന് നിങ്ങൾക്ക് കണ്ടെത്താനാകും അതേ വിവരങ്ങൾ ആംഗിളിന്റെ അടിസ്ഥാനത്തിൽ നൽകിയിരിക്കുന്നു അതിനാൽ നിങ്ങൾക്കറിയാം ഒരു വേവ് സഞ്ചരിക്കുന്ന ഏത് ദൂരവും അത് ലാംഡയുടെ അടിസ്ഥാനത്തിലോ ആംഗിളിന്റെ അടിസ്ഥാനത്തിലോ ഒരു ദൂരമായി പ്രകടിപ്പിക്കാം കാരണം നിങ്ങൾ ലാംഡയിലൂടെയാണ് സഞ്ചരിക്കുന്നതെങ്കിൽ അടിസ്ഥാനപരമായി ആംഗിളിൽ അതിന് തുല്യമായ 360 ഡിഗ്രി ആംഗിളിലാണ് നിങ്ങൾ സഞ്ചരിക്കുന്നത് ലാംഡയുടെ ടേമ്സിൽ എത്ര ദൂരം സഞ്ചരിച്ചു എന്നത് നിങ്ങൾക്ക് എത്ര ഫേയ്സ് മാറ്റുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലും പറയാം ഇത് നമ്മുടെ അവസാന സ്ലൈഡാണ് നിങ്ങൾ ശ്രദ്ധാപൂർവ്വം നോക്കുക ഈ സ്ലൈഡ് ദയവായി ഓർക്കുക എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമ്പോൾ സ്മിത്ത് ചാർട്ട് ഒരേസമയം രണ്ട് പാരാമീറ്ററുകൾ പ്രദർശിപ്പിക്കുമെന്ന് ഓർമ്മിക്കുക നമ്മൾ എപ്പോഴും കാണുന്ന വലത് വശത്ത് നിന്ന് ഏത് സമയത്തും ഏത് പോയിന്റിന്റെയും ഇമാജിനറി ഭാഗം എന്താണെന്ന് നിങ്ങൾക്ക് കണ്ടെത്താനാകും അതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു റിഫ്ലക്ഷൻ കോയെഫിഷ്യന്റ് കണ്ടെത്താനാകും ഇടത് വശം രണ്ട് സർക്കിൾ ഫാമിലിയുടെ കുട്ടിമുട്ടലിനെ കാണിക്കുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് തുടർച്ചയില്ലായ്മ കണ്ടെത്താനാകും അതിനാൽ സ്മിത്ത് ചാർട്ടിലെ ഓരോ പോയിന്റും ഒരേസമയം ഇടതുവശത്തെ ഇംപെഡൻസിനെയും റിഫ്ലക്ഷൻ കോയെഫിഷ്യന്റിനെയും പ്രതിനിധീകരിക്കുന്നു അതിനാൽ നിങ്ങൾക്ക് സൌകര്യപ്രദമായത് അതായത് ഒരു പ്രത്യേക ഡിസൈൻ പ്രശ്നത്തിന് അല്ലെങ്കിൽ ഒരു പ്രത്യേക അനാലിസിസ് പ്രശ്നത്തിന് സൌകര്യപ്രദമായത് അത് ഏതുതന്നെയായാലും നിങ്ങൾക്ക് അതിലേക്ക് മടങ്ങാൻ കഴിയും എന്നതാണ് സ്മിത്ത് ചാർട്ടിന്റെ ഭംഗി അടുത്ത 2 ലെക്ചറുകളിൽ നമുക്ക് സ്മിത്ത് ചാർട്ടിന്റെ ആപ്ലിക്കേഷൻ കൂടുതൽ കാണാം